ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്റർനാഷണൽ എച്ച്ആർഎം നെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് കൂടാതെ ഈ പ്രഭാഷണത്തിൽ ആഗോള തൊഴിൽ നിയമം വ്യാവസായിക ബന്ധങ്ങൾ അന്തർദേശീയ ധാർമ്മികത എന്നീ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ചില വശങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ തൊഴിൽ നിയമത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു നമ്മൾ വ്യവസായ ബന്ധങ്ങളെ കുറിച്ച് പൊതുവായി സംസാരിച്ചു കൂടാതെ നമ്മൾ പൊതുവായി ധാർമ്മികത നിയമം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു മാനവ വിഭവശേഷി മാനേജറുടെ വീക്ഷണകോണിൽ നിന്ന് ആഗോള പരിതസ്ഥിതിയിലേക്ക് ഈ ആശയങ്ങളുടെ പ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് സ്രോതസ്സുകൾ ഷുലർ ബ്രിസ്കോ ഷുലർ ക്ലോസ് Schuler Briscoe Schuler and Claus എന്നിവരുടെ പുസ്തകം കൂടാതെ ഗോമസ് മെജിയ ബാൽകിൻ കാർഡി Gomez Mejia Balkin and Cardy എന്നിവരുടെ പുസ്തകം നമുക്ക് അത് തുടരാം അന്താരാഷ്ട്ര ബിസിനസിന്റെ സ്ഥാപനപരമായ സന്ദർഭത്തിൽ അന്തർദേശീയ സംഘടനകൾ ഉൾപ്പെടുന്നു അതിനാൽ ഈ ഓർഗനൈസേഷനുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഓർഗനൈസേഷനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഓർഗനൈസേഷനുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ഐകൃ രാഷ്ട്രങ്ങൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒഇസിഡി ലോകബാങ്കും ഇന്ത്യൻ മോണിറ്ററി ഫണ്ടും ക്ഷമിക്കണം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അന്താരാഷ്ട്ര വ്യാപാര സംഘടനകളും കരാറുകളും അതിനാൽ നമുക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ട് നമ്മൾക്ക് NAFTA ഉണ്ട് നമ്മൾക്ക് മെർകോസൂർ ഉണ്ട് നമ്മൾക്ക് ആൻഡിയൻ കമ്മ്യൂണിറ്റി ആസിയാൻ അപെക് യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയുണ്ട് കൂടാതെ വാണിജ്യ നയതന്ത്രം നമ്മൾക്കുണ്ട് അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓർഗനൈസേഷനുകളുടെ പ്രവർത്തനം വിവിധ രീതികളിൽ നിരീക്ഷിക്കപ്പെടുന്നു നമ്മളെ സഹായിക്കുന്ന വിവിധ ഓർഗനൈസേഷനുകൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിക്കുള്ളിൽ തന്നെ തുടരുന്നു സ്ഥാപന പശ്ചാത്തലം വീണ്ടും വാണിജ്യ നയതന്ത്രം നമ്മൾ വാണിജ്യ നയതന്ത്രത്തെകുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വ്യാപാര ചർച്ചകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ പൌരന്മാരിൽ നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആതിഥേയ രാജ്യത്തിനുള്ളിലെയും വിദേശ രാജ്യത്തിനുള്ളിൽ നിന്ന് ആളുകൾ കുടിയേറുന്നതും ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്ന മാതൃരാജ്യത്തിനുള്ളിലെയും ഏത് പ്രവർത്തന ഘട്ടത്തിലാണ് ഓർഗനൈസേഷൻ എന്നതുപോലുള്ള കാര്യങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് നിയമങ്ങളുണ്ട് നമ്മൾക്ക് മാനദണ്ഡങ്ങളുണ്ട് ഒരു ജീവനക്കാരൻ നിയമവിരുദ്ധമായ എന്തെങ്കിലും ചെയ്താൽ എന്ത് സംഭവിക്കും എങ്ങനെ ഏത് രാജ്യം ഭരിക്കുന്നു ഏത് നിയമം ഈ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഏത് രാജ്യത്തിന്റെ നിയമത്തിനു കിഴിലായിരിക്കും മുതലായ മാനദണ്ഡങ്ങൾ നമ്മൾക്കുണ്ട് നമ്മൾ ഒരു ഉൽപ്പന്നമോ സേവനമോ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏത് മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിക്കുന്നത് ഏത് മാനദണ്ഡമാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുക ഈ മാനദണ്ഡങ്ങൾ എങ്ങനെ തീരുമാനിക്കും എന്ന് ആരാണ് തീരുമാനിക്കുക കൂടാതെ ആരാണ് ഈ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുക അതിനാൽ ആശയവൽക്കരണം ഉൽപ്പാദനം വിൽപ്പനാനന്തരം സേവനം ഘട്ടങ്ങൾ എന്നീ വിവിധ മാനദണ്ഡങ്ങൾക്ക് നമ്മൾ എത്രത്തോളം മുൻഗണന നൽകുന്നു വ്യാവസായിക സബ്സിഡികൾ എങ്ങനെ എവിടെ നിന്ന് എന്ത് തരത്തിലുള്ള സബ്സിഡികളാണ് നമ്മൾക്ക് ലഭിക്കുന്നത് വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിന് സർക്കാർ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എവിടെയാണ് ഈ നിയന്ത്രണങ്ങൾ നിയമത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നാം നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് കൂടാതെ നമുക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന സാമൂഹിക സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ പരിസ്ഥിതി ഭൂമിശാസ്ത്രപരമായ പരിസ്ഥിതി എന്നിവയിൽ നിന്ന് എങ്ങനെ പരമാവധി പ്രയോജനം നേടാനാകും വാണിജ്യ നയതന്ത്രത്തിലെ മറ്റൊരു പ്രശ്നമാണ് കോർപ്പറേറ്റ് പെരുമാറ്റം വിവിധ അന്താരാഷ്ട്ര ഓർഗനൈസേഷനുകൾ പ്രസ്താവിച്ചിട്ടുള്ള തുല്യമായ തൊഴിൽ മാനദണ്ഡങ്ങൾ ഇത് നമ്മൾ ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളാണിവ കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് യൂണിയൻവൽക്കരണം എങ്ങനെയാണ് കൂട്ടായ വിലപേശൽ സംഘടിത തൊഴിലാളികളെ എങ്ങനെയാണ് വിവിധ രാജ്യങ്ങളിൽ പരിഗണിക്കുന്നത് അതൊരു വലിയ പ്രശ്നമാണ് മനുഷ്യവിഭവശേഷി മാനേജർമാർ അവരുടെ ഓർഗനൈസേഷന്റെ ബാക്കിയുള്ളവരുമായി കണ്ടെത്തുകയും കൈകാര്യം ചെയ്യുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിത് തുല്യ തൊഴിൽ അവസരവും വിവേചനരഹിതവും നാം പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളിലെയും തുല്യ തൊഴിൽ അവസരങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിനുള്ളിൽ വ്യത്യസ്ത തരം ആളുകളോട് നമ്മൾ പരിചിതരല്ലെങ്കിലും വിവേചനം കാണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ കണ്ടെത്താനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്കാണ് ബാലവേല നിർബന്ധിത തൊഴിൽ എന്നിവയ്ക്കെതിരായ നിരോധനം ജയിൽ അല്ലെങ്കിൽ അടിമവേല ഞാൻ ഉദ്ദേശിച്ചത് രാജ്യം എങ്ങനെ ബാലവേല നിർവചിച്ചിരിക്കുന്നു ബാലവേലയിൽ ഏർപ്പെടുന്നവർക്കെതിരെ രാജ്യം എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം നൽകിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല റഗ്മാർക്കിന്റെ ഈ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കാം ഐകിയ സ്ഥാപിച്ചു കൂടാതെ ഐകിയ അതിന്റെ പ്രവർത്തനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തു കൂടാതെ വെണ്ടർമാരിൽ ഒരാളിൽ നിന്നോ ചില കച്ചവടക്കാരിൽ നിന്നോ ഐകിയയ്ക്ക് കുട്ടികൾ നിർമ്മിച്ച പരവതാനികൾ ലഭിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി അല്ലെങ്കിൽ കുട്ടികൾ ജോലി ചെയ്യുന്ന കുടിൽ വ്യവസായങ്ങളിൽ നിന്ന് അവരുടെ പരവതാനികൾ ലഭിക്കുന്നു എന്ന് കണ്ടെത്തി അതിനാൽ ഇക്കാര്യം അറിഞ്ഞയുടനെ ഐകിയ തിരുത്തൽ നടപടി സ്വീകരിച്ചു കൂടാതെ അവർ റഗ്മാർക്കിന്റെ ഈ മുഴുവൻ ആശയം കൊണ്ടുവന്നു അതായത് റഗ്മാർക്ക് അതൊരു മുദ്രയാണ് അല്ലെങ്കിൽ അതൊരു സ്റ്റാമ്പ് ആണ് എന്ന് ഉറപ്പാക്കി പരവതാനി കുട്ടികൾ ഉണ്ടാക്കിയതല്ല എന്ന് ഉറപ്പാക്കുന്നു തൊഴിൽ സുരക്ഷയും ആരോഗ്യവും സംബന്ധിച്ച അടിസ്ഥാന തത്വങ്ങൾ അതിനാൽ ഇത് മറ്റൊന്നാണ് തൊഴിൽ സുരക്ഷയെയും ആരോഗ്യത്തെയും കുറിച്ച് എവിടെ ഏത് രാജ്യമാണ് പറയുന്നത് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ ഇവിടെയെല്ലാം പരിസ്ഥിതി ആരോഗ്യം എന്നതിന് കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം ആ പ്രദേശത്ത് നമ്മൾ കൂടുതൽ സംരക്ഷണ ഉപകരണങ്ങൾക്കായി ചെലവഴിക്കണം ഏത് തരത്തിലുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ എങ്ങനെ എന്ത് തരത്തിലുള്ള സംരക്ഷണ ഉപകരണങ്ങളാണ് നമ്മുടെ ആളുകൾക്ക് നൽകുന്നത് എന്നത് പിന്നെ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ഉദാഹരണത്തിന് നിങ്ങൾ വളരെ ചൂടുള്ള കാലാവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എന്ന് കരുതുക അതിനാൽ നിങ്ങൾ ആളുകളെ അയയ്ക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയിൽ അത്തരം ആളുകൾക്കായി നിങ്ങൾ ഒരുക്കുന്ന വ്യവസ്ഥകൾ വളരെ തണുത്ത കാലാവസ്ഥയിൽ ഉള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കുന്ന വ്യവസ്ഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും കൂടാതെ ഇത് ഓരോ വ്യവസായത്തിന്റെ തരം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഖനന വ്യവസായത്തിൽ വ്യത്യസ്തമായിരിക്കും തുണി വ്യവസായം അവിടെ നാരുകൾ ഒഴുകിനടക്കുന്നുണ്ടാവും അത് മിക്കവാറും നിങ്ങളുടെ ശ്വസനവ്യവസ്ഥയെ തകരാറിലാക്കും ചില സ്ഥലങ്ങളിൽ ധാരാളം പുക ധാരാളം ചൂട് ലോഹത്തിന്റെ കഷണങ്ങൾ ചുറ്റും പറക്കുന്നു ഒരുപക്ഷേ ഗ്ലാസ് ചുറ്റും പറക്കുന്നു അതിനാൽ നിങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷ നിങ്ങൾ എങ്ങനെ പരിപാലിക്കും അതിനാൽ തൊഴിലാളികളെ കുറയ്ക്കൽ പ്ലാന്റ് അടച്ചുപൂട്ടൽ തുടങ്ങിയ കാര്യമായ മാറ്റങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കുന്നതിന് മുമ്പ് തൊഴിലാളികളുടെ ഗ്രൂപ്പുകളുമായുള്ള കൂടിയാലോചന നടത്തേണ്ടതുണ്ട് നമ്മൾ മൾട്ടി കൺട്രി അല്ലെങ്കിൽ മൾട്ടി നാഷണൽ സംരംഭങ്ങളുമായി ഇടപെടുമ്പോൾ വീണ്ടും ഇതൊരു വലിയ വെല്ലുവിളിയായി മാറുന്നു പരാതി അല്ലെങ്കിൽ തർക്ക പരിഹാര നടപടിക്രമങ്ങൾ അതെ നമ്മൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറുടെ അടുത്ത് പോകണം സൂപ്പർവൈസർ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രേഖാമൂലം നൽകുക അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു യൂണിയനിലേക്ക് പോകുക മുതലായവയാണ് പക്ഷേ നിയമം നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ് കൂടാതെ ഇത് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കാം അതിനാൽ വീണ്ടും അതായത് നിങ്ങൾക്ക് ഒരു പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെന്തും സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കും തൊഴിൽ രീതികൾ ഓഡിറ്റ് ചെയ്യുന്നതിന് ആന്തരികമോ ബാഹ്യമോ ആയ മോണിറ്ററുകളുടെ ഉപയോഗം നിങ്ങളുടെ തൊഴിൽ രീതികൾ നിങ്ങൾ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നടപടിക്രമങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ചെയ്യാർ ഈ കാര്യങ്ങൾ ആരാണ് പരിപാലിക്കുന്നത് എന്നിവ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന എച്ച്ആർ പ്രൊഫഷണലുകൾ കൈകാര്യം ചെയ്യേണ്ട മറ്റൊരു വെല്ലുവിളിയാണ് അന്താരാഷ്ട്ര ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർക്ക് പ്രത്യേകിച്ച് മൾട്ടി നാഷണൽ എന്റർപ്രൈസസിൽ അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് മൾട്ടി നാഷണൽ എന്റർപ്രൈസ് പ്രവർത്തിക്കുന്ന ഓരോ രാജ്യങ്ങളിലെയും തൊഴിൽ നിയമങ്ങളും സമ്പ്രദായങ്ങളും നമ്മൾ വിശകലനം ചെയ്യണം ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞന്നേയുള്ളൂ എക്സ്ട്രാ ടെറിട്ടോറിയൽ നിയമങ്ങൾ പ്രത്യേകിച്ച് അത്തരം നിയമങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങൾക്ക് ബാധകമാകുന്ന പരിധി നിർണ്ണയിക്കുന്നു അതിനാൽ നിങ്ങൾക്കറിയാമോ ചില നിയമങ്ങൾ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് കമ്പനി ഉള്ള ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ചില നിയമങ്ങൾ ആ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിന്റെ അതിർത്തിക്കപ്പുറം വ്യാപിക്കുന്നു ഉദാഹരണത്തിന് ബാലവേല നിയമങ്ങൾ ചിലപ്പോൾ വിവേചനപരവും വിവേചന വിരുദ്ധവുമായ നിയമങ്ങൾ അവ ഏതെങ്കിലും പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഒതുങ്ങുന്നില്ല ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ ചില സന്ദർഭങ്ങളിൽ സ്ഥാപനം പ്രവർത്തിക്കുന്ന മേഖല ഭൌതിക മേഖല ഭൂമിശാസ്ത്രപരമായ പ്രദേശം എന്നിവയ്ക്ക് മുകളിലേക്കും അപ്പുറത്തേക്കും പോകുന്നു അതിനാൽ ഭൂമിശാസ്ത്രപരമായ അതിരുകളാൽ നിയന്ത്രിക്കപ്പെടാത്ത ചില നിയമങ്ങളുണ്ട് അതിനാൽ എന്താണ് ബാധകമായത് എവിടെയാണ് അതിനനുസരിച്ച് നടപ്പിലാക്കുന്നത് തുടങ്ങിയവയെല്ലാം കണ്ടെത്തേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജരുടെ ഉത്തരവാദിത്തമാണ് തൊഴിൽ ബന്ധങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലെ പ്രശ്നങ്ങൾ പ്രാദേശിക സാംസ്കാരിക രീതികൾ എന്നിങ്ങനെ എല്ലാ MNE കൾക്കും പൊതുവായുള്ള തൊഴിൽ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുക അതിനാൽ എവിടെയാണ് കാര്യങ്ങൾ തെറ്റായി പോകുന്നതെന്ന് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ് എന്ത് പ്രശ്നങ്ങളാണ് വരുന്നത് കൂടാതെ എങ്ങനെ പൊതുവായ പരിഹാരങ്ങൾ തയ്യാറാക്കാമെന്ന് നോക്കുക നിങ്ങൾക്കറിയാമോ എക്സ്ട്രാ ടെറിട്ടോറിയൽ നിയമങ്ങളളെന്നാൽ രണ്ട് പ്രവർത്തനങ്ങളെ എത്രത്തോളം സംയോജിപ്പിക്കണം എന്ന് നിർണയിക്കുന്ന നിയന്ത്രണ ഘടകങ്ങളാണ് പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത് ഒരു മൾട്ടി നാഷണൽ എന്റർപ്രൈസസിൽ വിവിധ രാജ്യങ്ങത്തെ പ്രവർത്തനങ്ങളുടെ പരസ്പരബന്ധം മറ്റൊന്ന് പൊതു മാനേജ്മെന്റ് ഏത് തലത്തിലാണ് നിങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നത് മറ്റൊന്ന് പൊതു മാനേജ്മെന്റ് വിവിധ രാജ്യങ്ങളിലെ ഓർഗനൈസേഷന്റെ രണ്ട് ഓഫീസുകൾക്കും പൊതുവായുള്ള ഓർഗനൈസേഷന്റെ നയങ്ങൾ എന്തൊക്കെയാണെന്നത് തൊഴിൽ ബന്ധങ്ങളുടെ കേന്ദ്രീകൃത നിയന്ത്രണമാണ് മറ്റൊന്ന് അതിനാൽ തൊഴിൽ ബന്ധങ്ങൾ എവിടെ എങ്ങനെ നിങ്ങൾ നിയന്ത്രിക്കുന്നു സംഘടനയുടെ ഭാഗമായി യൂണിയനെ അംഗീകരിക്കണമോ എന്ന് നിങ്ങൾ എവിടെയാണ് തീരുമാനിക്കുന്നത് ഒപ്പം എവിടെയാണ് യൂണിയൻവൽക്കരണം ഒഴിവാക്കേണ്ടത് ജീവനക്കാരുടെ പൾസ് നിങ്ങൾ എങ്ങനെ അളക്കും പൊതു ഉടമസ്ഥത അല്ലെങ്കിൽ സാമ്പത്തിക നിയന്ത്രണം പണം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് നിങ്ങൾ എവിടെയാണ് ചെലവഴിക്കുന്നത് നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ എവിടെയാണ് വിചാരിക്കുന്നത് ആതിഥേയ രാജ്യത്തിന്റെയും മാതൃരാജ്യത്തിന്റെയും കറൻസികൾ ഏത് അനുപാതത്തിൽ ആയിരിക്കും നിങ്ങൾക്കറിയാമോ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വിന്യസിക്കുന്നത് ഈ കാര്യങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കും കൂടാതെ നിയമങ്ങൾ ഇവയെ നിയന്ത്രിക്കുന്നു പ്രാദേശിക വിദേശ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് ദേശീയ നിയമത്തിന്റെ പ്രയോഗം നിങ്ങൾക്ക് കമ്പറേറ്റീവ് നിയമം ഉണ്ട് ഇമിഗ്രേഷനും വിസയ്ക്കും വേണ്ടിയുള്ള നിയമങ്ങൾ നമുക്കുണ്ടാകാം അതായത് വിദേശത്ത് താമസിക്കാനുള്ള സന്ദർശകന്റെ ഉദ്ദേശ്യമാണ് വിസ അത് മാതൃരാജ്യ പൌരന്മാർക്ക് ആ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാൻ ആതിഥേയ രാജ്യം നൽകുന്ന അനുമതിയാണ് അതിനാൽ നിങ്ങൾ അതിനെ ന്യായീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അവർ പറയുന്നു ശരി നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഈ മാസങ്ങളോ വർഷങ്ങളോ മറ്റൊ ജോലി ചെയ്യാം ഇമിഗ്രേഷൻ എന്നത് ബാഗും ലഗേജുമായി മറ്റൊരു രാജ്യത്തേക്കുള്ള നീക്കമാണ് താരതമ്യ നിയമം ഡാറ്റയുടെ സ്വകാര്യതയും സംരക്ഷണവും വീണ്ടും വിദേശ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ ഏതൊരു ഓർഗനൈസേഷനിലും ജീവനക്കാരുടെ ഡാറ്റ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് കൂടാതെ ഡാറ്റ സ്വകാര്യത നിയന്ത്രിക്കുന്ന നിയമങ്ങൾ വ്യത്യസ്തമാണ് അവ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വിവേചന വിരുദ്ധ നിയമങ്ങൾ പിരിച്ചുവിടലും തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കലും ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ തൊഴിലാളികളെ എപ്പോൾ പിരിച്ചുവിടാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ നിയമങ്ങൾ ഉണ്ടാകും കൂടാതെ ജീവനക്കാർക്ക് അവരോട് അന്യായമായി പെരുമാറിയെന്ന് തോന്നിയാൽ എന്ത് നടപടിയാണ് അവർക്ക് എടുക്കാൻ സാധിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ ഇത് അത്ര വ്യക്തമല്ല അതിനാൽ ഒരാൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം ഇപ്പോൾ ഇത് മൂന്ന് സാഹചര്യങ്ങളിൽ സംഭവിക്കാം ഒന്നുകിൽ ബിസിനസ്സ് പൂട്ടുന്നു അല്ലെങ്കിൽ ജോലിസ്ഥലം പൂട്ടുന്നു ബിസിനസ്സ് ക്ലോസ് ഡൌൺ എന്നതിനർത്ഥം നിങ്ങളുടെ ബിസിനസ്സ് അവസാനിച്ചു എന്നാണ് നിങ്ങൾ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങൾ പോകാൻ അനുവദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ജോലിസ്ഥലം കെട്ടിടം ഇനി സുരക്ഷിതമല്ല അല്ലെങ്കിൽ അത് വാടകയ്ക്കെടുത്തതാണ് ആർക്കെങ്കിലും അത് തിരികെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇനി സുരക്ഷിതമല്ല അതിനാൽ നിങ്ങളുടെ നിങ്ങളുടെ ഫിസിക്കൽ ലൊക്കേഷൻ അടച്ചുപൂട്ടുകയാണ് അല്ലെങ്കിൽ ജോലിയുടെ സാമ്പത്തിക ആവശ്യം കുറയുന്നു നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കൂടുതൽ സാങ്കേതികവിദ്യ വേണം നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും നിങ്ങൾ യാന്ത്രികമാക്കി അപ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം ആളുകളെ ഇനി ആവശ്യമില്ല അതിനാൽ നിങ്ങളുടെ ചില ജീവനക്കാരെ നിങ്ങൾ പിരിച്ചുവിടേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ ശക്തി കുറയ്ക്കേണ്ടതുണ്ട് പക്ഷേ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും ആ പ്രദേശത്തെ പ്രാദേശിക നിയമങ്ങളാൽ ഇത് നിയന്ത്രിക്കപ്പെടും കൂടാതെ ബൌദ്ധികസ്വത്ത് കണ്ടെത്തുന്നതും പാലിക്കുന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഉത്തരവാദിതത്തിലുള്ള ഒരു കാര്യമാണ് വലിയ കാര്യം നിങ്ങൾ എപ്പോഴും മറ്റൊരു വ്യക്തിയുടെ സംഭാവന അംഗീകരിക്കണം അറിവിന്റെ ഒരു കഷണം സൃഷ്ടിച്ച ഒരു വ്യക്തിക്ക് എല്ലായ്പ്പോഴും അർഹമായ ക്രെഡിറ്റ് നൽകണം ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബൌദ്ധിക സ്വത്ത് എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു ഇത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് ഇത് നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് നിങ്ങൾ കണ്ടുവല്ലോ എന്റെ എല്ലാ സ്ലൈഡുകളിലും ഞാൻ എല്ലായ്പ്പോഴും സ്രോതസ്സുകളുടെ റഫറൻസ് കുറച്ച് നൽകാറുണ്ട് ഇപ്പോൾ ഇത് വളരെ വളരെ പ്രധാനമാണ് ഇത് ഞാൻ സ്വന്തമായി കൊണ്ടുവന്ന ഒന്നല്ല നിങ്ങൾക്കറിയാം ഇത് എനിക്ക് ഒരു ഉൾക്കാഴ്ചയുള്ള കാര്യമല്ല ബ്രിസ്കോ ഷുലർ ക്ലോസ് Briscoe Schuler and Claus എന്നിവർ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വിവരങ്ങൾ എടുത്തത് ആ പുസ്തകം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതിനാൽ ഈ രചയിതാക്കൾ ചെയ്ത ജോലി ഞാൻ അംഗീകരിക്കുന്നു കൂടാതെ അതിനുള്ള അർഹമായ ക്രെഡിറ്റ് ഞാൻ അവർക്ക് നൽകുന്നു ഇതിനെ ബൌദ്ധിക സ്വത്തവകാശ സംരക്ഷണം എന്ന് വിളിക്കുന്നു എന്തുവിലകൊടുത്തും ഓർഗനൈസേഷന്റെ ജീവനക്കാർ മറ്റാരെങ്കിലും സൃഷ്ടിച്ച അറിവുകൾ അവർ ഉപയോഗിക്കുന്നവെങ്കിൽ അത് സംരക്ഷിക്കണം അല്ലെങ്കിൽ അർഹമായ ക്രെഡിറ്റ് നൽകണം അത് തികച്ചും അനിവാര്യമാണ് അന്താരാഷ്ട്ര തൊഴിൽ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന വിവിധ ഓർഗനൈസേഷനുകൾ വിവിധ അസോസിയേഷനുകൾ എന്നിവക്ക് ഒരു അന്തർദേശീയ തലത്തിൽ യൂണിയൻ ചെയ്യാവുന്നതാണ് അത് പ്രാദേശികമായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് ഒരേ കമ്പനിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ വ്യത്യസ്ത ഫാക്ടറികളിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ലൈൻ ജീവനക്കാരുണ്ട് അതിനാൽ ഈ ആളുകൾക്ക് ഓൺലൈനിൽ ഒത്തുചേരാം ഒത്തുചേരാനും പ്രവർത്തിക്കാനും അവർക്ക് ഒരു വഴി കണ്ടെത്താനാകും അങ്ങനെ അല്ലെങ്കിൽ യൂണിയൻ ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുക ഒപ്പം ഒരു പൊതു ശബ്ദം ഉണ്ടായിരിക്കുക ആ അന്താരാഷ്ട്ര യൂണിയൻ അംഗത്വം ഏതൊരു അന്താരാഷ്ട്ര ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്കും ഒരു വലിയ ആശങ്കയാണ് അന്താരാഷ്ട്ര തൊഴിൽ ബന്ധങ്ങളുടെയും സംഘടനകളുടെയും പരിണാമം അന്താരാഷ്ട്ര തൊഴിൽ ബന്ധങ്ങൾ നിരീക്ഷിക്കുന്ന വിവിധ സംഘടനകൾ ഒന്ന് വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഫ്രീ ട്രേഡ് യൂണിയൻസ് ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ യൂറോപ്യൻ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ലേബർ ഒഇസിഡിയുടെ ട്രേഡ് യൂണിയൻ ഉപദേശക സമിതി ഗ്ലോബൽ യൂണിയൻ ഫെഡറേഷനുകൾ മുതലായവയാണ് അന്താരാഷ്ട്രതലത്തിൽ യൂണിയൻ അനുവദിക്കുന്ന വിവിധ സംഘടനകൾ പ്രായോഗികമായി യൂണിയനുകൾ മൾട്ടി നാഷണൽ എന്റർപ്രൈസുകളെ കാണുന്നത് കുറഞ്ഞ സാമൂഹിക പരിരക്ഷകളും കുറഞ്ഞ വേതനവും ആനുകൂല്യങ്ങളും ഉള്ള രാജ്യങ്ങളിൽ ജോലി കണ്ടെത്താൻ കഴിയുകയും എന്നാൽ ശക്തമായ യൂണിയനുകൾ ശക്തമായ സംരക്ഷണം ഉയർന്ന വേതനവും ആനുകൂല്യങ്ങളും ഉള്ള രാജ്യങ്ങളിൽ നിന്ന് അകന്നുനിൽക്കുന്ന ഒന്നായിട്ടുമാണ് ഇപ്പോൾ യൂണിയനുകൾക്കും അന്താരാഷ്ട്ര യൂണിയനുകൾക്കും തോന്നുന്നത് മൾട്ടി നാഷണൽ എന്റർപ്രൈസസ് വേതന നിരക്ക് കുറവുള്ള രാജ്യങ്ങളിൽ മനഃപൂർവ്വം ജോലി നോക്കുന്നു എന്നാണ് അവർക്കത് ഇഷ്ടമല്ല ഇതാണ് അവരുടെ ധാരണ മൾട്ടി നാഷണൽ കമ്പനികൾ മൾട്ടി നാഷണൽ ആവാൻ കാരണം അവർ ശ്രമിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പരിശ്രമത്തിൽ പരമാവധി പ്രയോജനം നേടാനാണ് അതാണ് ലാഭം ഉണ്ടാക്കുന്നതിനുള്ള താക്കോൽ പക്ഷേ ഇത് തങ്ങൾക്ക് അന്യായമാണെന്ന് അവർ കരുതുന്നു കാരണം അവർ താഴ്ന്ന സാമൂഹിക സംരക്ഷണമുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അവർ ഒരു രാജ്യത്തെ തൊഴിലാളികളെ മറ്റ് രാജ്യങ്ങളിലെ തൊഴിലാളികളിൽ നിന്ന് മത്സരത്തെ അഭിമുഖീകരിപ്പിക്കുന്നു അവരുടെ ജോലി നിലനിർത്താൻ അവരുടെ വേതനവും ആനുകൂല്യങ്ങളും ലേലം ചെയ്യാൻ നിർബന്ധിക്കുന്നു മൾട്ടി നാഷണൽ യൂണിയനുകൾക്കും ഈ മൾട്ടി നാഷണൽ എന്റർപ്രൈസസിനും ഓർഗനൈസേഷനുകൾ മൾട്ടി നാഷണൽ എന്റർപ്രൈസസ് അവരെ ഒന്നുകിൽ പ്രകടമായി അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി ഭീഷണിപ്പെടുത്തുന്നതായി തോന്നുന്നു നിങ്ങൾ ഇത് കുറഞ്ഞ വേതനത്തിന് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പോയി കൂലി വളരെ കുറവുള്ള ഒരു രാജ്യത്ത് ഒരു ഓഫീസ് സ്ഥാപിക്കുകയും അവിടെ നിന്ന് തൊഴിലാളികളെ വാങ്ങുകയും ചെയ്യും എന്ന് പറയുന്നു അതിനാൽ ആരെങ്കിലും നിങ്ങളോട് അത് പറഞ്ഞാൽ ഇതിനകം തന്നെ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും നിങ്ങൾ പറയും ശരി ഞാൻ ജോലിയിൽ തുടരാം കുറഞ്ഞ കൂലിക്ക് ഞാൻ ജോലി ചെയ്യാം നിങ്ങളുടെ യൂണിയൻ ശക്തി പ്രയോഗിച്ച് ഇല്ല എന്റെ മിനിമം വേതനം ഇത്രയായിരിക്കണം എന്ന് പറയുന്നതിന് വിരുദ്ധമായിട്ടാണിത് നിങ്ങൾ അത് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കും എന്ന് നിങ്ങൾക്ക് പറയാനാവില്ല കാരണം ഓർഗനൈസേഷന് ഒരു രാജ്യത്ത് ചെലവ് വളരെ കുറവൊള്ളോരിടത്ത് ഒരു ഓഫീസ് സ്ഥാപിക്കുക എന്ന ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ അത് പറയാനാവില്ല അതിനാൽ യൂണിയനുകൾക്ക് തോന്നുന്നത് അതാണ് എംഎൻഇകൾ മൾട്ടി നാഷണൽ എന്റർപ്രൈസസുകൾ തൊഴിലാളികൾക്ക് നിയമപരമായി അനുശാസിക്കുന്ന ആനുകൂല്യങ്ങളിലെ വ്യത്യാസങ്ങൾ പ്രയോജനപ്പെടുത്തുകയും തൊഴിൽ ശക്തി ക്രമീകരണങ്ങളുടെ ചെലവ് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നുവെന്ന് യൂണിയനുകൾ കരുതുന്നു അങ്ങനെ ഈ കുറഞ്ഞ പ്രയോജനമുള്ള രാജ്യങ്ങളിൽ തൊഴിലാളികൾക്ക് അമിതമായ സ്ഥാനഭ്രംശ ഭാരങ്ങൾ നിർബന്ധിതമാക്കുന്നു ജീവിതച്ചെലവ് വളരെ കുറവുള്ള സ്ഥലങ്ങളിലേക്ക് മാറാൻ തങ്ങൾ നിർബന്ധിതരാണെന്ന് ജീവനക്കാർക്ക് തോന്നുന്നു അതിനാൽ അവർക്ക് കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നു കൂടാതെ നിങ്ങൾക്കറിയാമോ അവർ ആ വ്യവസ്ഥകൾ അവരുടെ കരാറിൽ ഉൾപ്പെടുത്തുകയും കൈമാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പറയുകയും ഈ ആളുകളെ അവിടെ നിർത്തുകയും ചെയ്യുമെന്ന് അവർക്ക് തോന്നുന്നു അപ്പോൾ വീടിന്റെ വാടക അലവൻസ് കുറയും അതിനാൽ ആളുകൾക്ക് വഞ്ചിക്കപ്പെട്ടതായി തോന്നുന്നു ഒരു രാജ്യത്ത് തൊഴിൽ തർക്കമുണ്ടായാൽ പണമൊഴുക്ക് ബിസിനസ്സ് നിലനിർത്താനുള്ള കഴിവ് എന്നിവ കാരണം തർക്കങ്ങളില്ലാത്ത രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങൾ ഭാഗികമായെങ്കിലും പരിപാലിക്കപ്പെടുന്നു അതിനാൽ മാനേജുമെന്റുമായി യുദ്ധം ചെയ്യാൻ ആളുകൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അത്ര താൽപ്പര്യമില്ലാത്ത സ്ഥലങ്ങൾ മൾട്ടി നാഷണൽ എന്റർപ്രൈസസ് അന്വേഷിക്കുന്നതായി യൂണിയനുകളും കരുതുന്നു മാനേജ്മെന്റ് നൽകുന്നതെന്തും അവർ സ്വീകരിക്കുന്നു കൂടാതെ ഈ സ്ഥലങ്ങളിൽ നിന്ന് പണമൊഴുക്ക് കൂടുതലായിരിക്കും അതിനാൽ കമ്പനികൾക്ക് ലോക്ക്ഡൌണുകളും പണിമുടക്കുകളും താങ്ങാൻ കഴിയും യൂണിയനുകളുടെ ആവശ്യങ്ങൾക്ക് അവർ വഴങ്ങേണ്ടതില്ല അതിനാൽ മൾട്ടി നാഷണൽ എന്റർപ്രൈസസിലെ എച്ച്ആർ മാനേജർമാർ കൈകാര്യം ചെയ്യേണ്ട ചില വെല്ലുവിളികൾ ഇവയാണ് ബഹുരാഷ്ട്ര വിലപേശലിനുള്ള തടസ്സങ്ങൾ നിങ്ങൾ ഒരു മൾട്ടി നാഷണൽ എന്റർപ്രൈസ് യൂണിയന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഒരു ഇന്റർനാഷണൽ എച്ച്ആർ മാനേജരോ അല്ലെങ്കിൽ ഒരു യൂണിയൻ അംഗമോ ആണെങ്കിൽ ഇരുവശത്തും ഒരാൾക്ക് മുന്നിലേക്ക് കടന്നുവരാൻ കഴിയുന്ന ചില തടസ്സങ്ങളുണ്ട് വിവിധ രാജ്യങ്ങളിലെ വൈവിധ്യമാർന്ന വ്യാവസായിക ബന്ധ നിയമങ്ങളും സമ്പ്രദായങ്ങളും നിങ്ങൾ എങ്ങനെ വിലപേശും ഏത് തലത്തിലാണ് നിങ്ങൾ വിലപേശുന്നത് എന്താണ് നിർബന്ധം എന്താണ് നിയമപരം എന്താണ് നിയമവിരുദ്ധം തുടങ്ങിയവ നിയന്ത്രിക്കും തൊഴിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ ആഗോള തൊഴിൽ നിയമം എന്നിവയ്ക്കായി ഏതെങ്കിലും കേന്ദ്ര അന്താരാഷ്ട്ര അധികാരത്തിന്റെ അഭാവം അതിനാൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര അന്തർദേശീയമായി ഭരിക്കുന്ന തൊഴിൽ നിയമം ഇല്ലെങ്കിൽ ഒരു വശത്ത് അല്ലെങ്കിൽ മറ്റൊന്ന് കൂടുതൽ ദുർബലരായ വശത്തെ മുതലെടുക്കാൻ കഴിയുമെന്ന് ആളുകൾക്ക് തോന്നുന്നു വിവിധ രാജ്യങ്ങൾക്കിടയിലെ പ്രധാന സാമ്പത്തിക സാംസ്കാരിക വ്യത്യാസങ്ങൾ മറ്റൊരു പ്രശ്നമാണ് തൊഴിലുടമയുടെ എതിർപ്പാണ് മറ്റൊരു പ്രശ്നം അതിനാൽ ദേശീയ തലത്തിൽ യൂണിയൻ വിമുഖത കാരണം ബഹുരാഷ്ട്ര വിലപേശൽ തങ്ങളിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര നേതൃത്വത്തിലേക്ക് അധികാരം കൈമാറുമെന്ന് ദേശീയ നേതൃത്വം പലപ്പോഴും ഭയപ്പെടുന്നു അതിനാൽ ആളുകൾക്ക് തോന്നുന്ന വിവിധ പ്രശ്നങ്ങൾ അവരുടെ വിലപേശൽ ശക്തികളെ തടസ്സപ്പെടുത്തും അതിനാൽ തൊഴിലുടമയ്ക്ക് തങ്ങളുടെ വിലപേശലിനെ എതിർക്കാമെന്ന് അവർ കരുതുന്നു ദേശീയ തലത്തിൽ യൂണിയൻ വിമുഖത കാണിച്ചേക്കാമെന്നും അവർ കരുതുന്നു കാരണം ദേശീയ തലത്തിൽ അവർ കലാപം നടത്തിയാൽ അവർ എന്തെങ്കിലും പറഞ്ഞാൽ മൾട്ടി നാഷണൽ അതോറിറ്റി മൾട്ടി നാഷണൽ നേതാവ് അവരെ നിരസിച്ചേക്കാം കാരണം ആ പ്രശ്നം ദേശീയ തലത്തിൽ പ്രധാനമായിരിക്കില്ല പക്ഷെ ബഹുരാഷ്ട്ര തലത്തിൽ അത് പ്രധാനമായേക്കാം യൂണിയനുകൾക്കായുള്ള ഒരു കേന്ദ്രീകൃത തീരുമാനമെടുക്കൽ അതോറിറ്റിയുടെ അഭാവം ദേശീയ അതിർത്തികൾക്കപ്പുറമുള്ള യൂണിയനുകളുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന്റെ അഭാവം മൾട്ടി നാഷണൽ യൂണിയനുകൾ വീണ്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണെന്ന് വിവിധ രാജ്യങ്ങളിലെ ആളുകളെ നിങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്തും വ്യത്യസ്ത ദേശീയ മുൻഗണനകളാണ് മറ്റൊന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ മുൻഗണന നൽകുന്നു നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്തും മറ്റൊരു രാജ്യത്ത് ആളുകൾക്ക് സ്വീകാര്യമായേക്കില്ല മറ്റ് രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ ആശങ്കകൾ പ്രാദേശിക ആശങ്കകൾ എന്നിവയ്ക്ക് വിധേയമാക്കാൻ ജീവനക്കാരുടെ മനസ്സില്ലായ്മ അതിനാൽ അവർ ആശങ്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ഇത് നിരവധി സൂക്ഷ്മമായ രീതികളിൽ ആവർത്തിക്കുന്ന ഒരേ പോയിന്റാണ് അതായത് നമുക്ക് ആളുകളെ ആവശ്യമില്ല മറ്റൊന്ന് നമ്മൾ പറയുന്നതെന്തും മറ്റൊരു രാജ്യത്തെ ജനങ്ങളുടെ ആശങ്കകളേക്കാൾ പ്രധാനമാണെന്ന് നമ്മൾക്ക് തോന്നുന്നു അതിനാൽ പൊതുവായ ആവശ്യങ്ങൾക്ക് മുമ്പായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കൂടാതെ അതൊരു പോരായ്മയുമാകാം അല്ലെങ്കിൽ അത് നമ്മുടെ അന്തർദേശീയ യൂണിയനുകൾ എന്ന നിലയിലുള്ള അന്തർദേശീയ വിലപേശൽ ശക്തിയെ പിൻവലിക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യാം ആഗോള സഹകരണ സമയത്ത് പരിഹരിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ തർക്ക പരിഹാരത്തിന് എന്ത് നിയമങ്ങളാണ് ബാധകമാകുക തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കും ഏതൊക്കെ നിയമങ്ങൾ ബാധകമാകും ആതിഥേയ രാജ്യത്തിന്റെ നിയമങ്ങൾ ബാധകമാകുമോ മാതൃരാജ്യത്തിന്റെ നിയമങ്ങൾ ബാധകമാകുമോ ചർച്ചകളുടെ പ്രക്രിയയ്ക്ക് എന്ത് നിയമങ്ങളാണ് ബാധകമാകുക ഏത് നിയമത്തിന് കിഴിൽ ചർച്ചകൾ ഉൾകൊള്ളുന്നു എന്നതാണ് മറ്റൊന്ന് ഉദാഹരണത്തിന് രണ്ടോ അതിലധികമോ രാജ്യങ്ങളിൽ ഉള്ള കമ്പനികൾക്കിടയിലെ ചർച്ചകൾ ഏത് നിയമത്തിൽ ഉൾക്കൊള്ളുന്നു ആഗോള സഹകരണ സമയത്ത് അഭിസംബോധന ചെയ്യേണ്ട മറ്റൊരു ചോദ്യമാണിത് അപ്പോൾ ഏത് നിയമത്തിന് മുൻഗണന നൽകും ഏത് വ്യവസ്ഥക്ക് മുൻഗണന നൽകും ബഹുരാഷ്ട്ര സംരംഭങ്ങളും തൊഴിൽ ബന്ധങ്ങളും ചില സമീപനങ്ങൾ മൾട്ടി നാഷണൽ ഓർഗനൈസേഷനുകളിൽ തൊഴിൽ ബന്ധങ്ങളെ സമീപിക്കാനുള്ള വിവിധ മാർഗങ്ങളുണ്ട് പ്രാദേശിക മാനേജർമാർ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഹാൻഡ് ഓഫ് സമീപനം നമ്മൾക്കുണ്ട് കേന്ദ്ര ഭരണകൂടം പറയുന്നു ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനില്ല പിന്നെ മറ്റൊരു സമീപനം ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് ഒരു സഹകരണത്തിലേക്കുള്ള ഒരു ചുവട് വെയ്ക്കുന്നു അത് നിരീക്ഷണം ആയിരിക്കും ലോക്കൽ മാനേജർമാർ എല്ലാം കൈകാര്യം ചെയ്യുന്നു എന്നാൽ കാര്യങ്ങളിൽ ഒരു ടാബ് നിലനിർത്താൻ മുതിർന്ന മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുന്നു അതിനാൽ സീനിയർ മാനേജ്മെന്റ് പറയുന്നു ശരി എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ഹാൻഡ് ഓഫ് സമീപനം ഞങ്ങളോട് നിങ്ങൾ പറയരുത് പകരം അതിനുള്ള പരിഹാരം നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അത് കൈകാര്യം ചെയും പക്ഷേ കഴിയുന്നിടത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക അത് പൂർത്തിയാക്കുക മോണിറ്ററിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാൽ ഞങ്ങളെ ആ ലൂപ്പിൽ നിർത്തുകയും ചെയ്യുന്നു എന്നാണ് അതിനാൽ എന്തെങ്കിലും ശരിയല്ലെന്ന് തോന്നിയാൽ നമുക്ക് ഇടപെടാം ഞങ്ങൾ ഇടപെടില്ല പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വഴികാട്ടുകയും ഉപദേശിക്കുകയും ചെയ്യും അതിനാൽ മാതൃ കമ്പനിയിൽ നിന്ന് കോർ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അൽപ്പം കൂടുതൽ ഇടപെടൽ വഴികാട്ടലും ഉപദേശവും കേന്ദ്ര മാനേജ്മെന്റ് പ്രാദേശിക മാനേജ്മെന്റ് എന്നിവയിൽ നിന്നുള്ള നിരന്തരമായ ഉപദേശം എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയാം ആവശ്യമുള്ളപ്പോൾ അവർ നിരന്തരം ഇടപെടുന്നു തന്ത്രപരമായ ആസൂത്രണമാണ് മറ്റൊന്ന് ആഗോള തന്ത്രം പ്രാദേശിക മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു ആഗോള തന്ത്രം തീരുമാനിക്കുകയോ അല്ലെങ്കിൽ പ്രാദേശിക പ്രവർത്തനങ്ങളെയും മാനേജ്മെന്റിനെയും സ്വാധീനിക്കുകയോ ചെയ്യുന്നു അതിനാൽ നിയമങ്ങൾ കേന്ദ്ര തലത്തിൽ തീരുമാനിക്കപ്പെടുന്നു തന്ത്രം കേന്ദ്ര തലത്തിൽ തീരുമാനിക്കുന്നു അത് പ്രാദേശിക തലത്തിൽ പ്രയോഗിക്കുന്നു പരിധികൾ സജ്ജമാക്കി ഒഴിവാക്കലുകൾ അംഗീകരിക്കുക ഇവിടെ പ്രാദേശിക മാനേജർമാർക്ക് വളരെ പരിമിതമായ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത് ഒഴിവാക്കലുകൾക്ക് ആസ്ഥാനം അംഗീകാരം നൽകേണ്ടതുണ്ട് അതിനാൽ അത് മറ്റൊന്നാണ് അതിനാൽ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഈ ഓരോ ഘട്ടങ്ങളും ഓർഗനൈസേഷന്റെ പ്രധാന ഭരണത്തിന്റെ ഇടപെടലിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നു പൂർണ്ണമായും ആസ്ഥാനത്ത് നിന്ന് കൈകാര്യം ചെയ്യുന്നു അപ്പോൾ ആസ്ഥാനം പറയുന്നു ഞങ്ങൾ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ സ്വന്തമായി ഒരു തീരുമാനവും എടുക്കരുത് അന്തർദേശീയ മനുഷ്യവിഭവശേഷി ലൈൻ മാനേജ്മെന്റ് എന്നിവയുടെ ആസ്ഥാനങ്ങളുടെ സംയോജനം പ്രാദേശിക മാനേജ്മെന്റുമായി കൈകോർത്ത് ആഗോള തന്ത്രം പ്രവർത്തിക്കുന്നു അതിനാൽ ഹെഡ് ഓഫീസും കേന്ദ്ര ആസ്ഥാനവും പറയുന്നു ഞങ്ങൾ നിങ്ങളോട് പറയുന്നതെന്തും നിങ്ങൾ ചെയ്യുക ഞങ്ങൾ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ കണക്കിലെടുക്കും എല്ലാം ഞങ്ങൾ തീരുമാനിക്കും കൂടാതെ നിങ്ങൾ ഞങ്ങൾ പറയുന്നതിനോടൊപ്പം പ്രവർത്തിക്കുക ആസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് അൽപ്പം തണുപ്പൻ സമീപനമാണ് അവർ പറയും ഞങ്ങൾ നിങ്ങളോട് പറയും എന്തുചെയ്യണമെന്ന് താഴെത്തട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾ കാര്യമാക്കുന്നില്ല പക്ഷേ സംയോജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് കേന്ദ്ര ആസ്ഥാനത്തെയോ അല്ലെങ്കിൽ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന മാതൃ കമ്പനിയിലെ ആസ്ഥാനത്തെയോ അവർ തീരുമാനിച്ച നയങ്ങളുമായി അവയെ സംയോജിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് പ്രാദേശിക യൂണിയൻ പരിതസ്ഥിതികളിലേക്ക് ആശങ്കാജനകമായ പ്രശ്നങ്ങൾ Issues of concern to local union environments ആദ്യത്തേത് നിലവിലുള്ള ട്രേഡ് യൂണിയനുകൾ ഇതിനകം എന്താണുള്ളത് അവ സംഘടനയുടെ നിലവാരമാണ് മറ്റൊന്ന് എങ്ങനെയാണ് ഈ പ്രാദേശിക യൂണിയൻ പരിതസ്ഥിതികൾ സംഘടിപ്പിക്കുന്നത് ഫോക്കസ് ബ്രഡ്ത് എന്താണ് ഫോക്കസ് ഫോക്കസ് എത്രത്തോളം വിശാലമാണ് ആളുകളുടെ അഫിലിയേഷനുകൾ തൊഴിലാളികളുടെ യൂണിയൻ സാന്ദ്രതയുടെ തരങ്ങൾ യൂണിയനിൽ എത്ര പേരുണ്ട് എന്നത് തൊഴിൽ ബന്ധങ്ങളുടെ ശ്രദ്ധ ചർച്ചയിലെ പങ്കാളികൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ആരുമായാണ് ചർച്ചകൾ മുതലായവ നടത്തുന്നതെന്ന് തൊഴിലുടമകളുടെ അസോസിയേഷനുകൾ നിങ്ങൾക്ക് തൊഴിലുടമകളുടെ അസോസിയേഷനുകളും ഉണ്ടാകാം മുൻനിര തൊഴിലാളികൾക്ക് മാത്രമല്ല തൊഴിലുടമകൾക്കും ഒത്തുചേർന്ന് ഒരു കോൺഫെഡറേഷൻ രൂപീകരിക്കാം അവർ പറയും ഈ വ്യവസായത്തിൽ ഇതാണ് വഴി ഞങ്ങൾ അത് ചെയ്യും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് യൂണിയൻ കരാറുകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ പ്രാദേശിക യൂണിയൻ പരിതസ്ഥിതികൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ യൂണിയൻ കരാറുകളുടെ ബൈൻഡിംഗ് ഫോഴ്സ് ഓരോ രാജ്യത്തിനും വ്യത്യാസപ്പെടാം പണിമുടക്കുകളും വ്യാവസായിക പ്രവർത്തനങ്ങളും എന്താണ് വ്യാവസായിക പ്രവർത്തനം സമരത്തെ നേരിടാൻ സംഘടനകൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് അതിനാൽ അവരുടെ സ്ഥാപനത്തിൽ സംഭവിച്ചേക്കാവുന്ന ഏത് സ്ട്രൈക്കുകളും നേരിടാൻ സംഘടനകൾക്ക് എടുക്കാൻ കഴിയുന്ന ഏത് തരത്തിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ചാണ് നടപടി നിയന്ത്രിക്കുന്നത് കൂടാതെ സംഘടനയിൽ യൂണിയൻ രഹിതമായ സാഹചര്യം അത് രാജ്യത്തിനനുസരിച്ച് സ്ഥലങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം അന്താരാഷ്ട്ര തൊഴിൽ ബന്ധങ്ങൾ നിങ്ങൾക്ക് വർക്ക് കൌൺസിലുകൾ ഉണ്ടായിരിക്കും സ്ഥാപനത്തിന്റെ തൊഴിലാളികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേർന്നതാണ് വർക്ക്സ് കൌൺസിലുകൾ ഒരു സ്ഥാപനം എടുക്കുന്ന പല തീരുമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് സ്വീകരിക്കാനും വിവരങ്ങൾ നൽകാനും കൂടിയാലോചിക്കാനും അവകാശമുണ്ട് അതിനാൽ ഇത് ഒരു യൂണിയൻ അല്ല ഇത് അതിനേക്കാൾ കൂടുതലാണ് ഇത് ഒരു ചെറിയ തരത്തിലുള്ള സംഘടനയുടെ ജീവനക്കാരുടെ യൂണിയന്റെ ഒരു ശേഖരമാണ് കൂടാതെ ഇത് സ്ഥാപനത്തിന്റെ തൊഴിൽ ശക്തിക്കുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാൽ നിർമ്മിതമാണ് കൂടാതെ അവർക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കാൻ അവകാശമുണ്ട് കൂടാതെ സ്ഥാപനത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവർക്ക് സംഭാവന നൽകാനുള്ള അവകാശമുണ്ട് അന്താരാഷ്ട്ര തൊഴിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് സഹ നിർണ്ണയം മേൽനോട്ട ബോർഡുകളിലോ ഡയറക്ടർ ബോർഡുകളിലോ ജീവനക്കാരെ പ്രതിനിധീകരിക്കുകയും ഓർഗനൈസേഷൻ എടുക്കുന്ന പ്രധാന തീരുമാനങ്ങളിലും തന്ത്രപരമായ തീരുമാനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന നിയമപരമായ ആവശ്യകതയാണിത് കൂടാതെ ജീവനക്കാരുടെ പ്രതിനിധികളുടെ കരാർ ആവശ്യമാണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ചില സംവിധാനങ്ങളിൽ ഒന്ന് ഇരട്ട സംവിധാനമാണ് അവിടെ സൂപ്പർവൈസറി ബോർഡിൽ മൂന്നിലൊന്ന് ജീവനക്കാരുണ്ടാകും അവർ ഡയറക്ടർ ബോർഡിന്റെ മേൽനോട്ടം വഹിക്കുന്നു സിംഗിൾ ടയർ സമ്പ്രദായം ഒരു ഡയറക്ടർ ബോർഡ് മാത്രം ജീവനക്കാർ ഒന്നോ രണ്ടോ ഉണ്ടാകും ഒരു ഡയറക്ടർ ബോർഡ് മാത്രവും ജീവനക്കാരുടെ ഒന്നോ രണ്ടോ പ്രതിനിധികൾ മാത്രമേ അവിടെയുള്ളൂ ജീവനക്കാരുടെ നിർബന്ധിത പങ്കാളിത്തത്തോടെ ഇവിടെ ഒരു സമ്മിശ്ര സംവിധാനമുണ്ടാകുന്നു പക്ഷേ ഒരു ഉപദേശക റോൾ മാത്രമാണ് ജീവനക്കാർക്ക് ഉള്ളത് എന്ത് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയില്ല എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് മാത്രമേ അവർക്ക് പറയാൻ കഴിയൂ കൂടാതെ അവരുടെ അഭിപ്രായങ്ങൾ എടുക്കാം എടുക്കാതിരിക്കാം അതിനാൽ തീരുമാനമെടുക്കുന്നതിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായവുമില്ല എന്നാൽ പിന്നീട് അവർക്ക് ചെയ്യാം അതിനാൽ അതിനെ സഹ തീരുമാനങ്ങളുടെ സംവിധാനം എന്ന് വിളിക്കുന്നു ആഗോള ബന്ധങ്ങളിലെ വ്യവഹാര അപകടസാധ്യതകൾ സ്ഥാപനങ്ങൾ കാലാകാലങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ആഗോള തൊഴിൽ ബന്ധങ്ങൾ തന്ത്രപരമായ ആഗോള വ്യാവസായിക ബന്ധ നയത്തിന്റെ വികസനം അന്തർദേശീയവുമായി ഇടപെടുന്ന ആളുകൾ അതായത് തൊഴിൽ ബന്ധ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് അതിനാൽ ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജീവനക്കാർക്ക് സ്വീകാര്യമായ വ്യവസായ ബന്ധ നയം നിങ്ങൾ എങ്ങനെ കൊണ്ടുവരും ഒരാൾക്ക് സ്വീകാര്യമായത് മറ്റൊരാൾക്ക് സ്വീകാര്യമായേക്കില്ല അന്താരാഷ്ട്ര നൈതിക ചട്ടക്കൂട് നമ്മൾ കേവലവാദത്തെക്കുറിച്ച് സംസാരിച്ചു കൂടാതെ മുൻ പ്രഭാഷണങ്ങളിലൊന്നിൽ നമ്മൾ ആപേക്ഷികതയെക്കുറിച്ച് സംസാരിച്ചു അതും നിർണ്ണയിക്കാനാകുന്ന ഒന്നാണ് ഇത് സംസ്കാരത്തിൽ നിന്ന് സംസ്കാരത്തിലേക്ക് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വ്യത്യാസപ്പെടുന്നു കൂടാതെ ധാർമ്മികമായ സമ്പൂർണ്ണ സംസ്കാരമുള്ള ഒരു കമ്പനി അവിടെ നൈതിക ആപേക്ഷികവാദത്തിന് കേവലവാദത്തേക്കാൾ മുൻഗണന നൽകുന്ന ഒരു പരിതസ്ഥിതിയിൽ സ്വയം കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകാം തിരിച്ചും സംഭവിക്കാം കൈക്കൂലിയും അഴിമതിയുമാണ് ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട മറ്റൊരു കാര്യം ചില രാജ്യങ്ങൾ കൈക്കൂലി സ്വീകാര്യമായ ഒരു ബിസിനസ്സ് സമ്പ്രദായമായി കണക്കാക്കുന്നു വീണ്ടും ഇത് പുസ്തകത്തിൽ നിന്നുള്ളതാണ് അതിനാൽ ഇത് അവർക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു മെക്സിക്കോയിൽ ഇത് കൈക്കൂലിയല്ല ധാരാളം വാക്കുകൾ അതിന് നൽകിയിരിക്കുന്നു മിക്ക രാജ്യങ്ങളിലും സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി കുറ്റകരമാണ് പക്ഷേ ഇവിടെ വീണ്ടും മെക്സിക്കോ അതിനെ ലാ മൊർഡിഡ എന്ന് വിളിക്കുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഇതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ഞാൻ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത് ശരിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും പാക്കിസ്ഥാനിലും നിങ്ങൾ ബക്ഷീഷ് എന്ന് പറയും അത് അംഗീകരിക്കപ്പെടുന്നില്ല ഇത് സ്വീകാര്യമായ ഒരു ബിസിനസ്സ് സമ്പ്രദായമാണെന്ന് പുസ്തകം പറയുന്നു ഇന്ത്യയിൽ കൈക്കൂലി അംഗീകരിക്കുന്നില്ല പക്ഷേ അത് സംഭവിക്കുന്നു നമുക്ക് അത് സമ്മതിക്കാം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇത് സംഭവിക്കുന്നു കൈമാറ്റം ചെയ്യുന്ന ഏതൊരു പണത്തെയും നിയന്ത്രിക്കുന്ന തരംതിരിക്കുന്ന കൈമാറ്റം ചെയ്യുന്ന ഏതെങ്കിലും നിയമമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് ഇതിനെക്കുറിച്ച് തീരെ ഉറപ്പില്ല എന്തായാലും അതിനെ ബക്ഷീഷ് എന്ന് വിളിക്കുന്നു ജർമ്മനിയിൽ ഷിമ്മൻഗെൽറ്റ് ഇറ്റലിയിൽ ബുസ്റ്ററെല്ല അതിനാൽ ഇതിന് വിവിധ പേരുകൾ നൽകിയിട്ടുണ്ട് ഇത് നിയന്ത്രിക്കുന്ന ആ രാജ്യത്തെ നിയമങ്ങൾ ഇത് എത്രത്തോളം എപ്പോൾ നിയമവിരുദ്ധമാണെന്ന് നിർണ്ണയിക്കും പക്ഷേ കൈക്കൂലി കൈക്കൂലിതന്നെയാണ് കൈക്കൂലി എന്നത് ഒരു വാഗ്ദാനമാണ് ഈ പണം ഞാൻ നിങ്ങൾക്ക് തരുന്നു പകരം എനിക്ക് വേണ്ടി ഇത് ചെയ്യൂ കൈക്കൂലി എന്തുവിലകൊടുത്തും ഒഴിവാക്കണം അതിനാൽ ഞങ്ങൾ ഇവിടെ നിർത്തും കൂടാതെ അടുത്ത പ്രഭാഷണത്തിൽ അന്താരാഷ്ട്ര എച്ച്ആർഎമ്മിനുള്ള വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും വളരെയധികം നന്ദി